ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിൻറെ സ്വിങ് ലിമിറ്റ്സ് കണക്കാക്കാം ഇവിടെ കാണിച്ചിരിക്കുന്നത് സോഴ്സ് ഫീഡ്ബാക്ക് ബയാസിങ് ഉള്ള കോമൺ സോഴ്സ് ആംപ്ലിഫയർ ആണ് സ്വിങ് ലിമിറ്റ്സ് ആകെയുള്ള ക്വാണ്ടിറ്റിസിനെ ആശ്രയിച്ചിരിക്കുന്നു അതായത് ടോട്ടൽ ഡ്രയിൻ സോഴ്സ് വോൾട്ടേജ് ടോട്ടൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് മൈനസ് ത്രഷോൾഡ് വോൾട്ടേജ് എന്നതിനേക്കാൾ ചെറുതാവുകയാണെങ്കിൽ ഇത് ട്രയോഡ് റീജിയണിൽ പ്രവേശിക്കുന്നു അതുപോലെ ടോട്ടൽ ഡ്രയിൻ കറൻറ് പൂജ്യം ആകുമ്പോൾ ഇത് കട്ട് ഓഫിൽ പ്രവേശിക്കുന്നു അതിനാൽ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ ആകെയുള്ള ക്വാണ്ടിറ്റിസ് കണക്കാക്കുക എന്നതാണ് അതായത് ഓപ്പറേറ്റിങ് പോയിൻറ് പ്ലസ് ഇൻക്രിമെൻറൽ വാല്യൂസ് ഇത് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ആദ്യം ഞാൻ ഓപ്പറേറ്റിങ് പോയിൻറ് വാല്യൂസ് എഴുതാം ഓപ്പറേറ്റിങ് പോയിൻറ് വാല്യൂസ് VGS 3 വോൾട്ട്സ് VDS 4 വോൾട്ട്സ് എന്നിങ്ങനെ ആയിരിക്കും കാരണം ഈ നോഡിൽ R2 R1 R2 എന്നത് 4 ബൈ 15 എന്ന് അനുമാനിക്കാം അതിനാൽ ഇത് 4 വോൾട്ട്സിൽ ആയിരിക്കും ഇത് 5 വോൾട്ട്സിൽ ആയിരിക്കും കാരണം 200 മൈക്രോആംപിയർസ് 10 വോൾട്ട്സ് ഡ്രോപ് നൽകാനായി 50 kΩ വഴി ഒഴുകുന്നു അതിനാൽ 5 വോൾട്ട്സ് ഇവിടെ വരുന്നു കൂടാതെ MOS ട്രാൻസിസ്റ്ററിൽ 200 മൈക്രോആംപിയർസിന് 3 വോൾട്ട് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആവശ്യമുണ്ട് ഈ MOS ട്രാൻസിസ്റ്ററിൽ സോഴ്സ് 1 വോൾട്ടിൽ ആയിരിക്കും അതിനാൽ ഓപ്പറേറ്റിങ് പോയിന്റിൽ VGS 3 വോൾട്ട്സ് VDS 4 വോൾട്ട്സ് ആയിരിക്കും ഡ്രയിൻ കറൻറ് ID 200 മൈക്രോആംപിയർസ് ആയിരിക്കും ഇനി ഇൻക്രിമെൻറൽ ക്വാണ്ടിറ്റിയെ കുറിച്ച് അറിയാനായി ഇൻക്രിമെൻറൽ പിക്ചർ വരയ്ക്കാം കോഴ്സിൻറെ തുടക്കത്തിൽ ചർച്ച ചെയ്തതുപോലെ ഇൻക്രിമെൻറൽ പിക്ചറിൻറെ ഉപയോഗം ഇൻക്രിമെൻറ്സ് കണക്കാക്കാൻ വേണ്ടി മാത്രമാണ് അതിനുശേഷം ടോട്ടൽ ലഭിക്കാൻ ഇത് ഓപ്പറേറ്റിങ് പോയിന്റിനോട് ചേർക്കുന്നു vi ഇവിടെയാണ് എല്ലാ കപ്പാസിറ്റർസും ഷോട്ട് സർക്യൂട്ട്സ് ആയി പെരുമാറാൻ പാകത്തിൽ വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാം R1 ║R2 കൂടിയുണ്ട് ഇൻപുട്ട് സോഴ്സിൽ ഇൻറർണൽ റസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ ഭാഗത്തിന് പ്രത്യേക പ്രാധാന്യമില്ല ഇൻക്രിമെൻറൽ പിക്ചറിൽ ട്രാൻസിസ്റ്റർ vGS സോഴ്സ് ഗ്രൌണ്ടിനോട് ഷോട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ gmvGS RD RL എന്നിവയുണ്ട് ഇൻക്രിമെൻറൽ പിക്ചറിൽ സോഴ്സ് 0 വോൾട്ടിൽ ആണ് അതായത് ഇൻക്രിമെൻറൽ സോഴ്സ് വോൾട്ടേജ് പൂജ്യം ആണ് അതായത് സോഴ്സ് വോൾട്ടേജിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഇത് ഒരു വോൾട്ടിൽ ആണ് ഇൻക്രിമെൻറ് പൂജ്യമാണ് അതായത് ഇത് ഒരു വോൾട്ടിൽ നിലനിൽക്കും ഇൻക്രിമെൻറൽ ഗേറ്റ് വോൾട്ടേജ് vi ആണ് ഇൻക്രിമെൻറൽ ഡ്രയിൻ വോൾട്ടേജ് gm RD ║ RL vi ആണ് ഇൻക്രിമെൻറൽ ഡ്രയിൻ കറൻറ് iD എന്നത് gm vGS ആണ് ഓപ്പറേറ്റിങ് പോയിൻറ് ക്വാണ്ടിറ്റിസിനെ VGS0 VDS0 ID0 ഇങ്ങനെ വിളിക്കാം ഇൻക്രിമെൻറൽ ക്വാണ്ടിറ്റിസ് vGS vi ആയിരിക്കും കാരണം ഗേറ്റിൽ vi ഉണ്ട് സോഴ്സ് പൂജ്യമാണ് vDS gmRD ║RL vi ഈ പ്രത്യേക കേസിൽ 200µS 25kΩ vi 5vi ആണ് ഇൻക്രിമെൻറൽ ഡ്രയിൻ കറൻറ് iD gm vi 200µS vi ഇനി ടോട്ടൽ ക്വാണ്ടിറ്റിസ് ലഭിക്കാൻ നാം ചെയ്യേണ്ടത് ഓപ്പറേറ്റിങ് പോയിൻറ് ഇൻക്രിമെൻറൽ ക്വാണ്ടിറ്റിസിനോടൊപ്പം ചേർക്കുക എന്നതാണ് VGS എന്നത് VGS0 vi ആണ് ഈ പ്രത്യേക സർക്യൂട്ടിൽ ഇതു volts vi ആണ് VDS VDS0 gm RD ║RL vi എന്നത് 4 v 5 vi ആണ് ടോട്ടൽ ഡ്രയിൻ കറൻറ് ID ID0 gmvi 200 µA 200 µS vi ആണ് അതിനാൽ ഇവിടെ ടോട്ടൽ ക്വാണ്ടിറ്റി VGS VDS ID എന്നാണ് ഉള്ളത് ഇതിനർത്ഥം ഓരോ ഇൻസ്റ്റൻന്റിലും vi യിൽ വരുന്ന വ്യത്യാസം VGS VDS എന്നിവയിലാണെന്ന് നമുക്ക് അറിയാം അതിനാൽ ഇത് ട്രയോഡ് റീജിയൺ കട്ട് ഓഫ് റീജിയൺ മുതലായവയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് കണക്കുകൂട്ടാൻ ആകും ആദ്യമായി ട്രയോഡ് റീജിയൺ ചുമത്തിയ ലിമിറ്റ് എന്താണെന്ന് നോക്കാം ഇനി ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിൽ നിലനിൽക്കുന്നു VDS ≥VGS VT അല്ലെങ്കിൽ VDS ≤ VGS VT ഇത് ട്രയോഡ് റീജിയണിൽ പ്രവേശിക്കുന്നു ഇനി ഈ ലിമിറ്റ് കണക്കാക്കാനായി ടോട്ടൽ ക്വാണ്ടിറ്റിസ് ഇവിടെ പകരം വയ്ക്കുക മാത്രമാണ് ചെയ്യേണ്ടത് സാച്ചുറേഷനിൽ നിലനിൽക്കാൻ VDS എന്നത് VDS0 gmRD║ RL vi ≥ VGS VGS0 vi VT ഇനിക്വാലിറ്റി പുനഃക്രമീകരിക്കുക വഴി നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നു

അതിനാൽ ഇതാണ് ലിമിറ്റ് vi ഇതിനേക്കാൾ കുറവായിരിക്കുന്നിടത്തോളം ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയണിൽ ആയിരിക്കും ഇനി ട്രാൻസിസ്റ്റർ ട്രയോഡ് റീജിയണിൽ എന്തുകൊണ്ട് പ്രവേശിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഗേറ്റ് പോസിറ്റീവ് ആയി സ്വിംഗ് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അതായത് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ഗേറ്റ് വോൾട്ടേജ് ഇതിൻറെ കോഷ്യന്റ് വോൾട്ടേജിനേക്കാളും വർദ്ധിക്കുന്നു ഗേറ്റ് വോൾട്ടേജ് വർദ്ധിക്കുമ്പോൾ ഡ്രയിൻ കറൻറ് വർദ്ധിക്കുന്നു ഡ്രയിൻ കറൻറ് ഇങ്ങോട്ട് പുൾ ചെയ്യപ്പെടുമ്പോൾ ഡ്രയിൻ വോൾട്ടേജ് കുറയുന്നു കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻറെ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻക്രിമെൻറൽ ഗെയിനിൽ നിന്നും ഇത് വ്യക്തമാണ് ഇത് അർത്ഥമാക്കുന്നത് vi പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ഇവിടത്തെ ഇൻക്രിമെൻറ് നെഗറ്റീവ് ആയിരിക്കും അതിനാൽ ഗേറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഡ്രയിൻ താഴേക്കു വരുന്നു ഇത് ട്രയോഡ് റീജിയണിലേക്ക് പോകുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ ലിമിറ്റ് പ്രാധാന്യമർഹിക്കുന്നത് ആദ്യമായി ഇതെന്താണ് ഇത് കോഷ്യന്റ് അവസ്ഥയിൽ ഡ്രയിൻ ഗേറ്റ് എന്നിവയ്ക്കിടയിൽ സ്ഥിതിചെയ്യുന്നു അതായത് ഓപ്പറേറ്റിംഗ് പോയിൻറ് ഇത് VDS0 യിൽ ആണ് ഇത് VGS0 യിൽ ആണ് VDS0 ഇവിടെ ആണെന്ന് കരുതുക VGS0 ലെവൽസ് ഇവിടെ കാണിക്കുന്നു അതിനാൽ സെപ്പറേഷൻ വലുതാകുന്നതോടെ vi യുടെ തുടക്കത്തിലെ ലിമിറ്റ് വലുതാകുന്നു കാരണം അവിടെ സാധ്യതകൾ വർദ്ധിക്കുന്നു ട്രയോഡ് റീജിയണിൽ എത്തുന്നതുവരെ ഗേറ്റ് വോൾട്ടേജ് വർദ്ധിക്കണം ഡ്രയിൻ വോൾട്ടേജ് കുറയണം ഡ്രയിൻ ഗേറ്റ് എന്നിവയ്ക്കിടയിൽ സ്ഥിതിചെയ്യുന്ന ഒരു വലിയ സെപ്പറേഷനോടുകൂടി തുടങ്ങിയാൽ ലിമിറ്റ് വലുതായിരിക്കും ഇനി പ്ലസ് VT കൂടിയുണ്ട് കാരണം ഡ്രയിൻ ഗേറ്റ് വോൾട്ടേജിന് താഴെ പോകാം പക്ഷേ ഒരു VT യിൽ അധികമാകാൻ സാധ്യമല്ല നമുക്ക് ഒരു VT അധികമായി ഉണ്ട് ഡിനോമിനേറ്ററിൽ ഗെയിൻ gm RD ║ RL ഉണ്ട് കൂടാതെ പ്ലസ് ഒന്ന് എന്തുകൊണ്ടാണ് ഇത് ലഭിക്കുന്നത് ആദ്യമായി നാം ഇൻപുട്ടിലെ ലിമിറ്റ് ആണ് കണക്കാക്കുന്നത് ഗേറ്റ് വോൾട്ടേജ് ഒരു യൂണിറ്റ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഡ്രെയിൻ വോൾട്ടേജ് ഗെയിൻ യൂണിറ്റ് ആയി കുറയുന്നു ഇവ രണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഗേറ്റ് ഒരു യൂണിറ്റ് വർദ്ധിക്കുകയും ഡ്രെയിൻ ഗെയിൻ യൂണിറ്റ് ആയി കുറയുകയും ചെയ്യുന്നു അതിനാൽ ഇവ രണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ വൺ പ്ലസ് ഗെയിൻ യൂണിറ്റ് ആയി കുറഞ്ഞിരിക്കുന്നു ഇത് കുറച്ചു വർധിക്കുന്നു ഇത് കുറെയധികം താഴോട്ടു പോകുന്നു അതിനാൽ ഡിനോമിനേറ്ററിൽ വൺ പ്ലസ് ഗെയിൻ ഉണ്ട് അതിനാൽ ഈ എക്സ്പ്രഷൻ കൃത്യമാണ് അതിനാൽ സ്വിങ് ലിമിറ്റ് വർദ്ധിപ്പിക്കാൻ ട്രയോഡ് റീജിയൺ കണ്ടീഷൻ കാരണം വലിയ VDG0 ഉപയോഗിച്ച് പ്രവർത്തിക്കണം ഇതാണ് കോഷ്യന്റ് കണ്ടീഷനിൽ ഡ്രെയിൻ ഗേറ്റ് എന്നിവയ്ക്ക് ഇടയിലുള്ള സെപ്പറേഷൻ ഡ്രെയിൻ ഗേറ്റിനേക്കാൾ അധികം ആവശ്യത്തിന് ബയാസ് ചെയ്തിരിക്കണം ട്രയോഡ് റീജിയണിൽ നിന്നും ദൂരെയായിരിക്കണം അപ്പോഴാണ് വളരെ വലിയ സ്വിങ് ലഭിക്കുന്നത്